ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ തുടരുന്നു ഹലോ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന നമ്മളുടെ എൻപിടിഎൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ നോക്കുന്നു നമ്മൾ മൊഡ്യൂൾ നമ്പർ 6 ലാണ് അവസാന ക്ലാസ്സിൽ പാരല്ലൽപ്രൊജക്ഷനുകൾ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനുകൾ എന്നിങ്ങനെയുള്ള വ്യത്യസ്ത തരം പ്രൊജക്ഷൻ മാർഗങ്ങൾ നമ്മൾ കണ്ടു ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകൾ ഒബ്ളിക് പ്രൊജക്ഷനുകൾ പെർസ്പെക്ടീവ് പ്രൊജക്ഷനുകൾ അതിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനുകളുടെ ഭാഗമായ ആക്സോണോമെട്രിക് പ്രൊജക്ഷനുകളും നമ്മൾ നോക്കി അതിൽ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ ഡൈമെട്രിക് ട്രൈമെട്രിക് എന്നിവയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക ചരിഞ്ഞ കോണുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ ഒരു ഡൈമെട്രിക് പ്രൊജക്ഷൻ ട്രൈമെട്രിക് പ്രൊജക്ഷൻ എന്നിവ എന്താണെന്ന് മനസിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു ഇരുവശത്തും അത് തുല്യമാണെങ്കിൽ അത്പോലെ ഹോറിസൊണ്ടലുമായി 30 ഡിഗ്രി യിൽ ആണെങ്കിൽ മുഴുവൻ വസ്തുവിനെ നമ്മൾ തിരിക്കുന്നു ഒരു ക്യൂബോയിഡ് ഒരു ഷഡ്ഭുജമായി കാണപ്പെടുന്ന തരത്തിൽ അങ്ങനത്തെ പ്രോജക്ഷനെ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ എന്ന് വിളിക്കുന്നു ഡൈമെട്രിക് പ്രൊജക്ഷനുകളിൽ നമുക്ക് 30 ഡിഗ്രിയേക്കാൾ താഴെയുള്ള വ്യത്യസ്ത കോണുകളുണ്ട് ഇവിടെ ഇത് 15 ഡിഗ്രിയാണ് ട്രൈമെട്രിക്കിൽ നമുക്ക് വ്യത്യസ്ത മൂന്ന് കോണുകളും 30 ഡിഗ്രിയിൽ കുറവുള്ളതും 30 ഡിഗ്രിയിൽ കൂടുതലുള്ളതുമായ എന്തെങ്കിലും ഉണ്ടാകും അത്തരം പ്രൊജക്ഷനുകളെ നമ്മൾ ട്രൈമെട്രിക് പ്രൊജക്ഷനുകൾ എന്ന് വിളിക്കുന്നു ഇന്നത്തെ ക്ലാസിൽ ഈ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ വരയ്ക്കാൻ ഒരു ചതുരാകൃതിയിലുള്ള ബോക്സ് നൽകിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി ഒരു ചതുരം പ്രത്യേക പ്ലെയിനിൽ കിടക്കുന്നെങ്കിൽ പ്രത്യേകിച്ചും ഐസോമെട്രിക് പ്രൊജക്ഷനുകളിലൂടെ അത് എങ്ങനെ ദൃശ്യവൽക്കരിക്കാമെന്ന് നമ്മൾ ഘട്ടം ഘട്ടമായി പഠിക്കാൻ പോകുന്നു അതിനാൽ ഒരു ദീർഘചതുരത്തിന്റെ ഒരു ഉദാഹരണം നോക്കാം ഇപ്പോൾ നമ്മൾക്ക് 30 മില്ലീമീറ്റർ വീതിയും 50 മില്ലീമീറ്റർ നീളവും ഉള്ള ഒരു ചതുരം ഉണ്ട് കോർണർ പോയിന്റുകൾക്ക് എ ബി സി ഡി എന്നിങ്ങനെ പേരുനൽകാം ഇപ്പോൾ ഈ ദീർഘചതുരത്തിനായി പ്രൊജക്ഷനുകൾ നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആദ്യത്തേത് മൂന്ന് വ്യത്യസ്ത തരം പ്രൊജക്ഷനുകൾ സാധ്യമാണെന്ന് നമ്മൾ പറയാൻ ശ്രമിക്കുന്നു റൈറ്റ് ഹാൻഡ് വെർട്ടിക്കൽ ഫേസ് എന്ന് വിളിക്കുന്നത് ഒരു ഐസോമെട്രിക് പ്രൊജക്ഷൻ ലെഫ്റ്റ് ഹാൻഡ് വെർട്ടിക്കൽ ഫേസ് ഐസോമെട്രിക് പ്രൊജക്ഷനുകളും ആ ഹൊറിസോൻ്റൽ ഫേസിൻ്റെ ടോപ് വ്യൂവും ഇപ്പോൾ ഈ പ്രൊജക്ഷനുകൾ ഘട്ടം ഘട്ടമായി നോക്കാം ഐസോമെട്രിക് പ്രൊജക്ഷനുകളിൽ ആദ്യം നമ്മൾ ഈ ഐസോമെട്രിക് ആക്സിസ് നിർമ്മിക്കേണ്ടതുണ്ട് അവിടെ ദൈർഘ്യം ട്രൂ സ്കെയിൽ അടിസ്ഥാനത്തിൽ അളക്കാൻ കഴിയും അതിനാൽ അത് ചെയ്യുന്നതിന് ആദ്യം ഈ റൈറ്റ് ഹാൻഡ് വെർട്ടിക്കൽ ഫേസ് പഠിക്കാൻ പോകുന്നു ഉദാഹരണത്തിന് എനിക്ക് ഒരു ചതുരം ഉണ്ടെങ്കിൽ അല്പം ചരിഞ്ഞ വലത് ദിശയിൽ നിന്ന് ആ ചതുരം എങ്ങനെ കാണപ്പെടുന്നുവെന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് വെർട്ടിക്കൽ ഫേസ് എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങളുടെ പോലെയുള്ള ഒരു കൈയുണ്ട് വലതുവശത്ത് നിന്ന് അത് എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നിരീക്ഷിക്കാൻ ചെറുതായി തിരിയുക അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു തിരശ്ചീന ലൈൻ നിർമ്മിച്ച് 30 ഡിഗ്രി വര വരയ്ക്കുക എന്നതാണ് കാരണം ഐസോമെട്രിക് പ്രൊജക്ഷനുകൾക്കായി 30 ഡിഗ്രി ലൈൻ ചരിഞ്ഞ ലൈൻ വളരെ പ്രധാനമാണ് ഇപ്പോൾ എബി നീളം എന്തുതന്നെയായാലും ഈ ഐസോമെട്രിക് പ്ലെയിൻ നിർമ്മാണത്തിൽ അതേ നീളം എ ബി എന്ന് അടയാളപ്പെടുത്തുന്നു അതിനാൽ ഇതിനെ വിളിക്കുക എ ബി കാരണം നമ്മൾ കാണുന്ന ഐസോമെട്രിക് ആക്സിസിൽ ട്രൂ ലെങ്ക്തിൽ ഇത് വരയ്ക്കുന്നു അതിനാൽ എ ബി യും ഈ എ ബി യും ഒന്നു തന്നെയാണ് ഇപ്പോൾ എ യിൽ നിന്ന് ലംബമായി മുകളിലേക്ക് സമാനമായി ബി മുതൽ സി വരെ ലംബമായി വരക്കുക എബി ലൈനിന് സമാന്തരമായി ബി മുതൽ സി വരെയുള്ള ദൂരം ബിസിയിലേക്കും മറ്റൊരു ബിസിയിലേക്കും അതിനാൽ ഒരു ലംബ ലൈൻ വരയ്ക്കുക അതിൽ ഈ ദീർഘചതുരത്തിൽ ബിസി നീളമുള്ളത് നിർമ്മിക്കുക ഐസോമെട്രിക് വ്യൂവിലും ഇതേ നീളം ഉപയോഗിക്കുക ഈ ചുവന്ന വരയ്ക്ക് സമാന്തരമായി നിങ്ങളുടെ ഡ്രാഫ്റ്റർ ഉപയോഗിക്കുക ആ സി പോയിന്റിലൂടെ കടന്നുപോകുന്ന ഒരു ലൈൻ കൂടി വരയ്ക്കുക ഈ ലംബമായ എ ലൈൻ അർത്ഥമാക്കുന്നത് ഈ തിരശ്ചീന ലൈൻ ഡി എന്ന് വിളിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് എബിസിഡി പോയിന്റുകൾ ഉണ്ട് ഇത് ആദ്യത്തെ ഐസോമെട്രിക് വ്യൂ ആണ് കാരണം റൈറ്റ് ഹാൻഡ് വെർട്ടിക്കൽ ഫേസിൽ നിന്ന് ഇത് നിരീക്ഷിക്കുന്നു അതുപോലെ നമുക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് വെർട്ടിക്കൽ ഫേസ് നിർമ്മിക്കാം അതിനായി ആദ്യം നമ്മൾ പിന്തുടരുന്ന അതേ നടപടിക്രമം നമ്മൾ ഒരു തിരശ്ചീന ലൈൻ വരയ്ക്കുകയും പിന്നീട് ബി യുമായി ബന്ധപ്പെട്ട് ഒരു ചരിഞ്ഞ ലൈൻ വരയ്ക്കുകയും ചെയ്യും അതിനാൽ ഈ വേരിയബിളുകൾക്ക് പേര് നൽകുക എ ക്ഷമിക്കണം ഇത് എ ആയിരിക്കണം ഇത് ബി ആണ് ഇത് സി ആണ് ഇത് ഡി ആണ് എബി ദൂരം എന്തുതന്നെയായാലും 30 ഡിഗ്രി ലൈൻ വരയ്ക്കുക എബി അടയാളപ്പെടുത്തുക ഒരു ലംബ വര താഴേക്ക് വരക്കുക അതിൻ്റെ പേര് സി അതുപോലെ എ ഡീ നീളം എന്തായാലും ലംബമായ ഒരു ലൈൻ വരക്കുക നമ്മൾക്ക് ഒരേ എ ഡീ നീളമുണ്ട് എ ബി ലൈനിലേക്ക് ഒരു പാരല്ലൽ ലൈൻ വരയ്ക്കുക ലെഫ്റ്റ് ഹാൻഡ് വെർട്ടിക്കൽ ഫേസിൽ നമ്മൾ ഒരു ഐസോമെട്രിക് വ്യൂ നിർമ്മിക്കുന്ന രീതിയാണിത് തിരശ്ചീന മുഖത്തിന്റെ ടോപ് വ്യൂ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു തിരശ്ചീന ലൈൻ വരയ്ക്കുക 30 ഡിഗ്രി ചരിഞ്ഞ ലൈൻ വരയ്ക്കുക മറ്റൊരു ചരിഞ്ഞ ലൈൻ 30 ഡിഗ്രി എബി ദൈർഘ്യം എന്തുതന്നെയായാലുംഅതെ എബി ദൈർഘ്യം കാണിക്കുക എഡി ദൈർഘ്യം എന്തുതന്നെയായാലുംഅതെ എഡി ദൈർഘ്യം കാണിക്കുക ബി സിഡി എന്നിവയിൽ നിന്ന് ലംബങ്ങൾ ഇടുക അതിനാൽ ടോപ് വ്യൂവിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ ഒരു ഐസോമെട്രിക് വ്യൂ നിർമ്മിക്കും ഇപ്പോൾ ഒരു ത്രികോണം എങ്ങനെ നിർമ്മിക്കാമെന്നും ആ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ എന്താണെന്നും നോക്കാം ത്രികോണം എബി ആയിരിക്കാം ഒരുപക്ഷേ ഒരാൾക്ക് ചില ചരിഞ്ഞ കോണുകളാൽ നൽകപ്പെടും ഇതിന് 30 യൂണിറ്റ് ബേസ് ഉണ്ട് ഒരു കോണിൽ ഈ വശത്ത് 45 ഡിഗ്രിയും മറ്റൊരു കോണിൽ 60 ഡിഗ്രിയുമാണ് ഈ ത്രികോണം ഐസോമെട്രിക് വ്യൂവിൽ നമുക്ക് അതിനെ 30 ഡിഗ്രി ഉപയോഗിച്ച് ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്ന രീതിയിൽ തിരിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ചതുരം എങ്ങനെ വരയ്ക്കണമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റുകളുടെ ആദ്യ പടി ഈ വസ്തുക്കളെ ചതുരത്തിൽ ഉൾക്കൊള്ളുന്നു അതുപോലെ നമ്മൾ മറ്റ് പോയിന്റുകൾ അളക്കുകയും ആ ചതുരവുമായി വിന്യസിക്കുകയും തിരിക്കുകയും ചെയ്യുന്നു അതാണ് നമ്മൾ ജനപ്രിയമായി വിളിക്കുന്ന ഏറ്റവും എളുപ്പ മാർഗ്ഗം ബോക്സ് രീതി അതിനാൽ ആദ്യം ചതുരം വരയ്ക്കുന്നതിന് എബിസിഡി ലൈനുകൾ ഈ ത്രികോണത്തെ ഈ ദീർഘചതുരത്തിൽ ഉൾക്കൊള്ളുന്നു ഇപ്പോൾ ഈ മുഴുവൻ ദീർഘചതുരവും ആ 30 ഡിഗ്രി വരയോടുകൂടി ഒരു പാരലലഗ്രം ആയി തിരിക്കണം അതിനാൽ നമ്മൾ എബി ചതുരം നിർമ്മിച്ച വിധത്തിൽ ബി ലംബ ലൈനിൽ നിന്ന് വലത് ഫേസിനായി എബി പോയിന്റുകൾ കണ്ടെത്തുന്നതിൽ 30 ഡിഗ്രി വര വരയ്ക്കുക അതിനാൽ ബി ലംബമായ വരയും എയിൽ നിന്ന് ലംബ ലൈനിലും എബിക്ക് സമാന്തരമായും ഈ ദീർഘചതുരത്തിൽ നിന്ന് ബിസി അകലെ വരയ്ക്കുക അതിനാൽ ആ ചതുരം എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾക്കറിയാം അതിനാൽ എബി എഡി ലൈനുകൾ ബിസി ലൈനുകൾ സിഡി ലൈനുകൾ എന്നിവ നമ്മൾ പിന്തുടർന്ന ഘട്ടങ്ങൾ ഇപ്പോൾ പോയിന്റ് 1 മുതൽ ത്രികോണത്തിനായി ആ ദീർഘചതുരത്തിൽ സി മുതൽ 1 വരെയുള്ള ദൂരം എന്താണെന്ന് നമ്മൾ ദീർഘചതുരത്തിൽ കണ്ടെത്തണം സിഡി ലൈനിൽ സി 1 കണ്ടെത്തുക സമാനമായി ആ ദൂരം തിരഞ്ഞെടുക്കുക അതിനാൽ നിങ്ങളുടെ കോമ്പസ് അല്ലെങ്കിൽ ഡിവൈഡർ ഉപയോഗിച്ച് ആ നീളം ആ നീളത്തിലേക്ക് മാറ്റുക എന്നിട്ട് ആ പോയിന്റിനെ 1 എന്ന് വിളിക്കുക 1 പോയിന്റും എബി പോയിന്റുകളും അറിഞ്ഞുകഴിഞ്ഞാൽ അവയെ യോജിപ്പിക്കുക ഇതാണ് നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഐസോമെട്രിക് വ്യൂ അതുപോലെ ഐസോമെട്രിക് പ്ലെയിനുകളിൽ ഇടത് വശത്തുള്ള ഫ്രണ്ട് വ്യൂ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം ഒരു തിരശ്ചീന ലൈൻ വരയ്ക്കുക ഒരു പോയിന്റ് നമ്മൾ ആ ദിശയിലേക്ക് കറക്കുക അതിനാൽ 30 ഡിഗ്രി ലൈൻ ഇവിടെ വരയ്ക്കുക എ ബി ലെങ്ക്തിനെ ഇങ്ങോട്ട് മാറ്റുക ശേഷിക്കുന്ന ചതുരം ബിസി ലൈൻകൾ ലംബമായി നിർമ്മിക്കുക എഡി ലൈൻകളും ലംബമായി വരയ്ക്കുക അവ വരയ്ക്കുക 1 സി നീളം ഇവിടെ മാറ്റുക ഒരാൾക്ക് ഡി 1 ദൈർഘ്യവും അതേ രീതിയിൽ മാറ്റാൻ കഴിയും നമ്മൾ ഡി 1 എങ്ങനെ മാറ്റാം എന്നത് പോലെ നമുക്ക് 1 സി മാറ്റം ചെയ്യാൻ കഴിയും അത് ചെയ്താൽ നമ്മൾക്ക് ഈ പോയിൻറ് 1 ഉണ്ട് ഇപ്പോൾ ത്രികോണം നിർമ്മിക്കുന്നതിന് എ 1 ബി ചേർക്കുക ഇപ്പോൾ അത് എങ്ങനെ നിർമ്മിക്കാമെന്നതിനെക്കുറിച്ചുള്ള ടോപ് വ്യൂ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമുക്ക് ഒരു ഐസോമെട്രിക് തീം ആവശ്യമാണ് അതിനാൽ അതിനർത്ഥം നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഐസോമെട്രിക് ആക്സിസിൽ ഒന്നായി എബി ലൈൻ ഉപയോഗിക്കുക ടോപ് വ്യൂ വിനായി നമ്മൾക്ക് ഒരു ഐസോമെട്രിക് ആക്സിസും ആവശ്യമാണ് അതിനായി എ ഡീ ലൈനുകൾ ഉപയോഗിക്കുക അതിനാൽ എബിയും എഡിയും തുല്യ കോണുകളാക്കാൻ പോകുന്ന തരത്തിൽ നമ്മൾ കറക്കുന്നു ആദ്യം നമ്മൾ 30 ഡിഗ്രി ലൈൻ വരയ്ക്കുന്നു അതുപോലെ ഒരു 30 ഡിഗ്രി ലൈൻ കൂടെ വരക്കുകപേര് കൊടുക്കുക എ ഡീ നീളം ഇതിലേക്ക് മാറ്റുക അതുപോലെ ഈ പ്ലെയിനിൽ എബി നീളം ആക്കുക അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ ബി ഡി എന്നിവ നമ്മൾക്കറിയാം ഇപ്പോൾ എബി ലൈനിന് സമാന്തരമായി ബി സി അകലെ ഒരു ലൈൻ കൂടി വരയ്ക്കുക അതിനാൽ നമുക്ക് പോയിന്റ് സി ഉണ്ട് ഇപ്പോൾ 1 മുതൽ സി വരെ നീളം സി യിൽ നിന്ന് 1 ലേക്ക് മാറ്റുക ഇത് ചെയ്തുകഴിഞ്ഞാൽ ടോപ് വ്യൂവിൽ പോയിന്റ് എ ബി 1 എന്നിവ യോജിപ്പിക്കുക നമ്മൾക്ക് ആ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഉണ്ട് അതിനാൽ ഈ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ കാര്യമെന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുകയും അത് രണ്ട് പ്ലെയിനുകളിലും തുല്യ കോണുകൾ ഉണ്ടാക്കുന്നു അങ്ങനെ ആണ് നമ്മൾ ഈ ഐസോമെട്രിക് പ്രൊജക്ഷൻ നിർമ്മിക്കേണ്ടത് ഇത് സങ്കീർണ്ണമായ ഏതെങ്കിലും വസ്തുവാകാം എന്നാൽ ആദ്യം ഒരു ദീർഘചതുരത്തിൽ ഐസോമെട്രിക് അച്ചുതണ്ടുകളിലൊന്ന് 30 ഡിഗ്രി ഉപയോഗിച്ച് തിരിച്ചറിയേണ്ട ആ ചതുരം തിരിക്കുക തുടർന്ന് ഈ ദീർഘചതുരത്തിന്റെ ട്രൂ ലെംഗ്ത് ലംബ വരകളും സമാന്തരവും ഉപയോഗിച്ച് ഇതിലേക്ക് മാറ്റുക മാറ്റുന്ന പോയിൻ്റുകൾ കാണിക്കുക അതിനാൽ പെന്റഗണിന്റെ പോയിന്റുകൾ 1 2 3 4 5 എന്നിവ ഈ പാരലലഗ്രം എബിസിഡി യിലേക്ക് മാറ്റണം ഉദാഹരണത്തിന് എ 1 ലൈൻ അതേ എ 1 ലൈൻ നമ്മൾ അടയാളപ്പെടുത്തും അങ്ങനെ ആദ്യ പോയിന്റ് ചെയ്യും അപ്പോൾ ബി 2 നീളം അല്ലെങ്കിൽ എ മുതൽ 2 വരെ നീളമുള്ള അതേ നീളം നമ്മൾ എ മുതൽ 1 2 വരെ ഉപയോഗിക്കുന്നു അതുപോലെ ആദ്യം നമ്മൾ എ 1 എ 2 നീളം ബി മുതൽ 3 വരെ അടയാളപ്പെടുത്തുക ബി 3 എത്രയാണോ അത് തന്നെ അടയാളപ്പെടുത്തുക സി 4 സി മുതൽ 4 വരെ അതെ അളവ് അടയാളപ്പെടുത്തുക A 5 അടയാളപ്പെടുത്തുന്നു അത് ചെയ്തുകഴിഞ്ഞാൽ ഈ പോയിന്റുകൾ ചേർത്ത് ലൈൻ വരക്കുന്നു ഇപ്പോൾ തിരശ്ചീനത്തിൽ നിന്ന് 30 ഡിഗ്രി ചരിഞ്ഞ ലൈൻ എബി തിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അത് പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ആ രീതിയിൽ ഉചിതമായ നീളം കൈമാറുന്നതിലൂടെ നമുക്ക് പോയിന്റ് 12 3 4 5 പോയിന്റുകൾ കാണിക്കാൻ കഴിയും ടോപ് വ്യുവിന് ചതുരം ഇരുവശത്തും 30 ഡിഗ്രി തുല്യ കോണുകൾ ആയിരിക്കണം അതിനാൽ എബി ലൈനുകൾ ഇത് 30 ഡിഗ്രിയും അതേപോലെ എഡി ലൈനും 30 ഡിഗ്രി ആക്കുന്ന രീതിയിലാണ് നമ്മൾ കറക്കുന്നത് അതിനാൽ എ ഡീ നീളവും അതേ എ ഡീ നീളവും നമ്മൾ ഇവിടെ കാണിക്കും അതുപോലെ എബി നീളം നമ്മൾ കാണിക്കും അത് ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഈ ചതുരം നിർമ്മിക്കാം തുടർന്ന് എ 1 ബി 2 ബി 3 സി 4 ഡി 5 നീളങ്ങൾ ഉചിതമായി കൊടുക്കുക അതിനാൽ ടോപ് വ്യൂവിൽ പെന്റഗൺ ലഭിക്കുന്നതിന് നമ്മൾക്ക് 1 2 3 4 5 പോയിന്റുകൾ കൂട്ടി ചേർക്കാം ഒരു സർക്കിളിനായി അത് എങ്ങനെ ചെയ്യാം അത് നമുക്ക് പഠിക്കാം ആദ്യ ഘട്ടം എല്ലായ്പ്പോഴും ഒരു ദീർഘചതുരത്തിൽ ഒരു സർക്കിൾ ഉൾപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ ഈ സർക്കിളിന് കൂടിച്ചേരൽ എവിടെയാണെങ്കിലും 3 4 5 പോയിന്റുകളായി നൽകുക ഇപ്പോൾ ഫ്രണ്ടൽ കാഴ്ചയിൽ പാരലലഗ്രം അല്ലെങ്കിൽ റോംബസ് നിർമ്മിക്കുക ഈ എബി ലൈൻ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ കണ്ടു സി ഡീ ലൈനും അങ്ങനെ നമ്മൾക്ക് ഈ എബിസിഡി ചതുരം കിട്ടും ഇപ്പോൾ സിഡിയുടെയും എഡിയുടെയും വലിപ്പത്തിൻ്റ 3 4 മിഡ്പോയിന്റുകൾ കണ്ടു പിടിക്കുക അതിനാൽ സിഡി യിൽ പോയിന്റ് 3 ഡിഎയിൽ നിന്ന് പോയിന്റ് 4 ഈ പോയിന്റുകൾ ഈ റോമ്പസിലേക്ക് മാറ്റേണ്ടതുണ്ട് അതിനായി നമ്മൾ എങ്ങനെ ചെയ്യണം എന്നതാണ് ഈ ചതുരത്തിൽ സി മുതൽ 3 വരെയുള്ള ദൂരം എന്താണെന്ന് അളക്കുക കാരണം നമ്മൾ ഇതിനകം സി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കോമ്പസ് ഡിവൈഡറുകൾ ഉപയോഗിച്ച് മൂന്ന് പോയിന്റുകൾ അടയാളപ്പെടുത്താൻ ഇവിടെ 3 സി യും 3 സി അവിടെയും പരസ്പരം തുല്യമാണ് ഈ റോംബസിൽ അതുപോലെ ഡി 4 അല്ലെങ്കിൽ എ 4 ദൂരം എ മുതൽ 4 വരെ അടയാളപെടുത്തുക 4 3 എന്നിങ്ങനെ കാണിക്കുക അത് ചെയ്തുകഴിഞ്ഞാൽ ബി മുതൽ സി വരെ ഒരു ലൈൻ ആക്കുക സമാനമായി ഒരു ലൈൻ ബി മുതൽ 4 വരെ ചേർക്കുക ഡയഗണൽ ലൈനിൽ എ മുതൽ സി വരെ ചേർക്കുക ഈ വിഭജനം നടക്കുന്നിടത്തെല്ലാം ആ പോയിന്റിനെ 2 1 എന്ന് വിളിക്കുക ഒന്നൂടെ പറയാം ബി പോയിന്റ് നാലാമത്തെ പോയിന്റുമായി ചേർക്കുക അതുപോലെ മൂന്നാമത്തെ പോയിന്റിലേക്ക് ചേർക്കുക ഡയഗണൽ ലൈനിൽ എവിടെ കൂട്ടി മുട്ടുന്നുവോ ആ പോയിന്റുകൾ 1 2 എന്ന് പറയാം 1 2 എന്നിവ കേന്ദ്രങ്ങളായി ഉപയോഗിക്കുക അതിനാൽ 1 2 എന്നിവ കേന്ദ്രങ്ങളായി ഉപയോഗിക്കുന്നതിലൂടെ നീളം 1 3 എന്താണെന്ന് അളക്കുക തുടർന്ന് അതിലൂടെ കടന്നുപോകുന്ന ഒരു ആർക് വരയ്ക്കുക കേന്ദ്രമായി 1 റേഡിയസ് 1 3 പോയിന്റ് 5 വിഭജിക്കുന്ന ഒരു ആർക്ക് വരയ്ക്കുക 3 4 എന്നിവയുമായി ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ബി കണ്ടെത്തിയ വിധം സമാനമായ രീതിയിൽ ഒരാൾക്ക് ഡി മുതൽ ആ അവസാനം വരെയും ഈ അവസാനം വരെ നിർമ്മിക്കാനും കഴിയും 5 പോയിന്റുകൾ 5 6 പോയിന്റുകൾ ട്രാക്കു ചെയ്യാനും പറ്റും അതിനാൽ സർക്കിൾ ആർക്ക് അത് വരയ്ക്കുന്നുവെന്ന് നമ്മൾ അറിഞ്ഞുകഴിഞ്ഞാൽ അതുപോലെ 2 കേന്ദ്രമായി 6 ലൂടെ കടന്നുപോകുന്ന മറ്റൊരു ആർക്ക് വരയ്ക്കുക ഇപ്പോൾ 4 മുതൽ 3 വരെ ചേർക്കുക അതുപോലെ 6 മുതൽ 5 വരെ ഒരു കർവിലൂടെ അതിനാൽ നിങ്ങളുടെ സർക്കിൾ ഐസോമെട്രിക് വ്യൂവിൽ ഒരു ദീർഘവൃത്തമായി പരിവർത്തനം ചെയ്യുന്നു അതുപോലെ നമ്മൾക്ക് ലെഫ്റ്റ് സൈഡ് വ്യൂ വേണമെങ്കിൽ പാരലലഗ്രം നിർമ്മിക്കുന്ന അതേ പ്രക്രിയ നമ്മൾ ആവർത്തിക്കുന്നു ഇത് 30 ഡിഗ്രി വരയാക്കുന്നു ഈ രീതിയിൽ എബി പോയിന്റുകൾ കാണിക്കുക നമ്മളുടെ ചതുരം മാറ്റി ശേഷിക്കുന്ന ദീർഘവൃത്തം നിർമ്മിക്കുകയും ചെയ്യുക അതിനാൽ നമുക്ക് ഒരു പരിഹാരം നോക്കാം അതിനാൽ എബി സിഡി നിർമിക്കുക ഈ ഡാറ്റാ പോയിന്റുകൾ 3 4 5 6 ട്രാൻസ്ഫർ ചെയ്യുക 2 1 എന്ന കേന്ദ്രങ്ങൾ കാണിക്കുക റേഡിയസ് ഉപയോഗിക്കുക അവയെ ആർക്കുകളിലൂടെ സർക്കിളുകളായി ചേർക്കുക ടോപ് വ്യൂ വിന് എബി ലൈൻ 30 ഡിഗ്രി ആക്കുന്നു ബിസി ലൈൻ 30 ഡിഗ്രി ആക്കുന്നു അങ്ങനെ പാരലലഗ്രം നിർമ്മിക്കുന്നു ഈ ചതുരത്തിൽ നിന്ന് 3 4 പോയിന്റുകൾ മാറ്റുന്നതിലൂടെ ബിയിൽ നിന്ന് ഈ മൂന്നാമത്തെ പോയിന്റിലേക്ക് അതുപോലെ തന്നെ ബി നാലാമത്തെ പോയിന്റിലേക്ക് ഈ തൽക്ഷണ കേന്ദ്രങ്ങൾ 1 2 നിർമ്മിക്കുക തുടർന്ന് ഈ ദീർഘവൃത്തം ലഭിക്കുന്നതിന് ഈ ആർക്കുകൾ ഉപയോഗിച്ച് ആർക്കുകൾ ബന്ധിപ്പിക്കുക അതിനാൽ നിങ്ങളുടെ സർക്കിൾ തിരിക്കുമ്പോൾ ഐസോമെട്രിക് വ്യൂകളിൽ ഇത് ഒരു ദീർഘവൃത്തം പോലെ കാണപ്പെടുന്നു സോളിഡ് വസ്തുക്കൾക്കായി ഈ ഐസോമെട്രിക് പ്രൊജക്ഷനുകൾ എങ്ങനെ ചെയ്യാമെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും